ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫുകൾ അല്ലെങ്കിൽ ഡിഎജികൾ എന്ന് വിളിക്കുന്ന വളരെ രസകരവും പ്രധാനപ്പെട്ടതുമായ ഗ്രാഫുകളുടെ ക്ലാസിലേക്ക് ഞങ്ങൾ ഇപ്പോൾ ശ്രദ്ധ തിരിക്കുന്നു അതിനാൽ ഈ ക്ലാസ് ഗ്രാഫുകളെ പ്രചോദിപ്പിക്കുന്നതിന് ചില പരിമിതികളോടെ നിർവഹിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു കൂട്ടം ടാസ്ക് ഉള്ള ഒരു പ്രശ്നം നോക്കാം ഞങ്ങൾ ഒരു വിദേശ യാത്രയിലാണ് പോകുന്നതെന്ന് കരുതുക പിന്നെ ഞങ്ങൾക്ക് ഒരു പാസ്പോർട്ട് ആവശ്യമാണ് ഞങ്ങൾക്ക് ഒരു ടിക്കറ്റ് വാങ്ങണം ഞങ്ങൾക്ക് ഒരു വിസ ആവശ്യമാണ് ഞങ്ങൾക്ക് കുറച്ച് ട്രാവൽ ഇൻഷുറൻസ് വാങ്ങണം ഞങ്ങൾക്ക് കുറച്ച് വിദേശനാണ്യവും ആവശ്യമാണ് ഞങ്ങളുടെ ഹോസ്റ്റുകൾക്കായി ചില സമ്മാനങ്ങൾ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ ജോലികൾ പരസ്പരം ചില രീതികളിൽ ആശ്രയിച്ചിരിക്കുന്നു പാസ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് ടിക്കറ്റ് വാങ്ങാൻ കഴിയില്ല ഒരു യാത്രാ ഇൻഷുറൻസും വാങ്ങരുത് വിസയ്ക്കായി നിങ്ങൾക്ക് ടിക്കറ്റും ഇൻഷുറൻസും ലഭ്യമാകേണ്ടതുണ്ട് വിസയില്ലാതെ ബാങ്ക് നിങ്ങൾക്ക് വിദേശനാണ്യം നൽകില്ല അവസാനമായി യാത്ര സ്ഥിരീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റുകൾക്കായി സമ്മാനങ്ങൾ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ വിസ ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ സമ്മാനത്തിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഈ ആറ് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏത് ക്രമത്തിൽ നടത്തണം പാസ്പോർട്ട് നേടുക ടിക്കറ്റ് വാങ്ങുക ഇൻഷുറൻസ് നേടുക വിസ നേടുക വിദേശനാണ്യം വാങ്ങുക ഞങ്ങളുടെ ഹോസ്റ്റുകൾക്ക് സമ്മാനങ്ങൾ വാങ്ങുക എന്നിവയാണ് ഈ പരിമിതികൾ നൽകുന്നത് ഏത് ക്രമത്തിലാണ് നാം അത് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ടാസ്ക്കിനെ സമീപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം ടാസ്കിന് ആവശ്യമായ തടസ്സങ്ങൾ തൃപ്തികരമാണ് അതിനാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെ ഞങ്ങൾ ഇത് ഒരു ഗ്രാഫ് ഉപയോഗിച്ച് മാതൃകയാക്കും ഈ ഗ്രാഫിൽ വെർട്ടീസുകൾ ടാസ്ക്കുകളായിരിക്കും തുടർന്ന് ടി 1 മുതൽ ടി 2 വരെ പോയിന്റുചെയ്യുന്ന ഒരു എഡ്ജ് ഉണ്ടായിരിക്കും ടി 1 ടി 2 ന് മുമ്പായി വരേണ്ടതാണെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ടി 2 ടി 1 നെ ആശ്രയിച്ചിരിക്കുന്നു ടി ഒഴികെ ടി 2 ചെയ്യാൻ കഴിയില്ല 1 പൂർത്തിയായി അതിനാൽ ഒരു പാസ്പോർട്ട് ലഭിക്കുന്നതിന് ഒരു ടിക്കറ്റ് വാങ്ങുന്നതിനുമുമ്പ് വരണം അതിനാൽ ടി 1 ന് പാസ്പോർട്ട് ലഭിക്കുന്നു ടി 2 ന് ടിക്കറ്റ് ലഭിക്കുന്നു അതുപോലെ നിങ്ങൾ ഒരു വിദേശനാണ്യം വാങ്ങുന്നതിന് മുമ്പ് ഒരു വാങ്ങണം വിസ ഉണ്ടായിരിക്കണം അതിനാൽ ഒരു വിദേശനാണ്യം വാങ്ങുന്നതിന് വിസ ലഭിക്കുന്നതിൽ നിന്ന് ഒരു വശം ഉണ്ടാകും അതിനാൽ ഞങ്ങൾ എഴുതിയ പരിമിതികൾ പരിശോധിച്ചാൽ ഇത് ഞങ്ങളുടെ കൈവശമുള്ള ഗ്രാഫ് ആണ് അതിനാൽ ഞങ്ങൾക്ക് ഒരു ടിക്കറ്റ് വാങ്ങാൻ പാസ്പോർട്ട് ആവശ്യമാണ് ഇൻഷുറൻസ് വാങ്ങാൻ ഞങ്ങൾക്ക് ഒരു പാസ്പോർട്ട് ആവശ്യമാണ് ഞങ്ങൾക്ക് ടിക്കറ്റും ഇൻഷുറൻസും ആവശ്യമാണ് വിസ ലഭിക്കാൻ അതിനാൽ വിസയിലേക്ക് വിരൽ ചൂണ്ടുന്ന രണ്ട് നിയന്ത്രണങ്ങളുണ്ട് തുടർന്ന് ഒരു വിദേശനാണ്യം വാങ്ങാൻ നിങ്ങൾക്ക് ഒരു വിസ ആവശ്യമാണ് ഒടുവിൽ യാത്ര സ്ഥിരീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ ഒരു സമ്മാനം വാങ്ങൂ എന്ന് നിങ്ങൾ പറഞ്ഞു ഈ ഘട്ടത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ യാത്ര സ്ഥിരീകരിച്ചുവെന്ന് ഞങ്ങൾക്ക് അനുമാനിക്കാം കാരണം വിമാനത്തിൽ കയറുന്നത് തടയുന്നില്ല അതിനാൽ ഇത് ഞങ്ങളുടെ കൈവശമുള്ള ഒരു ഗ്രാഫ് ആണ് ഇപ്പോൾ ഈ ആറ് പ്രവർത്തനങ്ങളും ക്രമീകരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒരു ടാസ്ക് നിർവഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം അത് ആശ്രയിച്ചിരിക്കുന്നതെന്തും ഇതിനകം ചെയ്തു കഴിഞ്ഞു അതിനാൽ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട് ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ഒരു പാസ്വേഡ് നേടുന്നതിലൂടെ ആരംഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ ടിക്കറ്റുകൾ വാങ്ങുന്നതും ഇൻഷുറൻസ് വാങ്ങുന്നതും തമ്മിൽ യാതൊരു ആശ്രയത്വവുമില്ല അതിനാൽ പാസ്വേഡിന് ശേഷം നിങ്ങൾക്ക് ആദ്യം ഒരു ടിക്കറ്റ് വാങ്ങാം തുടർന്ന് ഇൻഷുറൻസ് വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇൻഷുറൻസ് വാങ്ങാം തുടർന്ന് ഒരു ടിക്കറ്റ് വാങ്ങാം അതിനാൽ പരിമിതികൾ ലംഘിക്കാത്ത മറ്റൊരു ക്രമം സാധ്യമാണ് മറുവശത്ത് ഞങ്ങൾക്ക് രണ്ടും ആവശ്യമുള്ള വിസയ്ക്ക് അതിനാൽ ടിക്കറ്റിനും ഇൻഷുറൻസിനും ശേഷം വിസ വരണം പക്ഷേ വീണ്ടും വിസ ചെയ്തുകഴിഞ്ഞാൽ വിദേശനാണ്യം വാങ്ങുന്നതും സമ്മാനങ്ങൾ വാങ്ങുന്നതും തമ്മിൽ യാതൊരു തടസ്സവുമില്ല അതിനാൽ സമ്മാനത്തിന് മുമ്പായി നിങ്ങൾക്ക് വിദേശ വിനിമയം നടത്താം അല്ലെങ്കിൽ വിദേശനാണയത്തിന് മുമ്പുള്ള സമ്മാനം അതിനാൽ ഈ പ്രത്യേക ഉദാഹരണത്തിൽ ടിക്കറ്റും ഇൻഷുറൻസും പുനക്രമീകരിക്കാൻ സാധ്യമായ രണ്ട് വഴികളുണ്ട് കൂടാതെ സമ്മാനങ്ങളും വിദേശവും പുന ക്രമീകരിക്കാൻ രണ്ട് വഴികളുണ്ട് അതിനാൽ മൊത്തത്തിൽ ഈ പരിമിതികളുമായി പൊരുത്തപ്പെടുന്ന നാല് വ്യത്യസ്ത സീക്വൻസുകൾ ഉണ്ട് അതിനാൽ ഈ ക്ലാസ് ഗ്രാഫ് ഒരു പ്രധാന ക്ലാസാണ് ഇതിന് രണ്ട് പ്രധാന സവിശേഷതകളുണ്ട് ഒന്ന് തീർച്ചയായും അത് സംവിധാനം ചെയ്യുന്നു കാരണം ഈ ഡിപൻഡൻസികൾ ഒരു ടാസ്ക്കിൽ നിന്ന് മറ്റൊരു ടാസ്കിലേക്കാണ് ഇത് ഒരു സമമിതി ആശ്രയത്വമല്ല കൂടാതെ ചക്രങ്ങളില്ല നോക്കൂ നിങ്ങൾക്ക് ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ അത് ടാസ്ക്കുകളുടെ ഗ്രൂപ്പ് പരസ്പരം ആശ്രയിച്ചിരിക്കും അതിനാൽ ആരംഭിക്കാൻ ഒരു വഴിയുമില്ല കാരണം ഓരോ ജോലിയും സൈക്കിളിലെ മറ്റെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ആരംഭിക്കുന്നതിന് നിങ്ങൾ എവിടെയെങ്കിലും സൈക്കിൾ തകർക്കണം പക്ഷേ നിങ്ങൾക്ക് ഇത് എവിടെയും തകർക്കാൻ കഴിയില്ല കാരണം ഓരോ ജോലിയും സൈക്കിളിലെ മറ്റെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഈ ഗ്രാഫിന് അരികുകളിൽ ദിശകൾ ഉണ്ടാകും മാത്രമല്ല അവ ഈ ഗ്രാഫിലെ ചക്രങ്ങളാകാൻ പാടില്ല അതിനാൽ അത്തരമൊരു ഗ്രാഫിനെ ഞങ്ങൾ സംവിധാനം ചെയ്ത അസൈക്ലിക്ക് ഗ്രാഫ് എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫ് ഒരു സംവിധാനം ചെയ്ത ഗ്രാഫ് മാത്രമാണ് അതിൽ ഏതെങ്കിലും ശീർഷകത്തിൽ നിന്ന് തന്നിലേക്ക് തന്നെ തിരിച്ചുപോകാനുള്ള പാതയില്ല അതിനാൽ ഞാൻ ഏതെങ്കിലും ശീർഷകം V ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ദിശയിൽ സംവിധാനം ചെയ്ത അരികുകളുടെ ഒരു ശ്രേണി പിന്തുടരാനും എങ്ങനെയെങ്കിലും d ലേക്ക് മടങ്ങാനും എനിക്ക് കഴിയില്ല അതിനാൽ ഇത് അവിടെ ഉണ്ടാകരുത് അതിനാൽ ഇത് ഈ ചക്രം ആയിരിക്കരുത് ഡയറക്റ്റ് അസൈക്ലിക്ക് ഗ്രാഫ് എന്ന പേര് DAG എന്ന് ഞങ്ങൾ ചുരുക്കിപ്പറയുന്നു അതിനാൽ പലപ്പോഴും ലാളിത്യത്തെ ഞങ്ങൾ ഈ ഗ്രാഫിനെ DAG കൾ എന്ന് വിളിക്കും അതിനാൽ ഞങ്ങളുടെ ഉദാഹരണത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത പ്രശ്നം ഞങ്ങൾ ഒരു കൂട്ടം ജോലികൾ നൽകിയിട്ടുണ്ട് മാത്രമല്ല അവ പരിമിതികളുമായി ബന്ധപ്പെട്ട് ഒരു ക്രമത്തിൽ എഴുതാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിമിതികൾ മറ്റൊന്നുമല്ല അരികുകൾ അതിനാൽ പൊതുവേ നമുക്ക് ഒരു കൂട്ടം ലംബങ്ങൾ നൽകുന്നു ഇവ നമ്മുടെ ജോലികൾ അമൂർത്തമായി 1 മുതൽ n വരെയാണ് മാത്രമല്ല നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു പരിമിതികൾ മാനിക്കപ്പെടുന്ന രീതിയിൽ ഞങ്ങളുടെ 1 മുതൽ n വരെ എഴുതുക ഇതിന്റെ അർത്ഥമെന്തെന്നാൽ 1 മുതൽ n വരെ ക്രമമാക്കുന്ന സംഖ്യകളുടെ ഒരു ശ്രേണി ഞങ്ങൾ എഴുതുന്നു എഡ്ജ് j k യെ പ്രതിനിധീകരിക്കുന്ന j k എന്ന രൂപത്തിന്റെ ഒരു തടസ്സം ഉണ്ടാകുമ്പോഴെല്ലാം നമ്മൾ നിർവ്വഹിച്ച അക്കത്തിൽ k ന് മുമ്പായി വരണം അതിനാൽ നമ്മുടെ പരിമിതിക്കനുസരിച്ച് k ന് മുമ്പ് j ചെയ്യേണ്ടതായിരിക്കരുത് പക്ഷേ നമ്മൾ k നിർമ്മിച്ച ശ്രേണി j ന് മുമ്പ് സംഭവിക്കുന്നു അതിനാൽ അന്തിമ ശ്രേണിയിലെ ലംബങ്ങളുടെ ക്രമം DAG നൽകിയ പരിമിതികളെ മാനിക്കണം അതിനാൽ വിവിധ കാരണങ്ങളാൽ ഇത് ടോപ്പോളജിക്കലായി DAG അടുക്കുന്നതായി അറിയപ്പെടുന്നു അതിനാൽ ആദ്യ നിരീക്ഷണം സംവിധാനം ചെയ്ത ഗ്രാഫിന് ഒരു ചക്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പോളജിക്കലായി ഓർഡർ ചെയ്യാൻ കഴിയില്ല കാരണം അതിന് ഒരു ചക്രം ഉണ്ടായിരുന്നുവെങ്കിൽ ഉദാഹരണത്തിന് j k എന്നിവ സൈക്കിളിലെ ലംബങ്ങളാണെന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് j ൽ നിന്ന് k ലേക്ക് ഒരു പാതയും k ൽ നിന്ന് j ലേക്ക് ഒരു പാതയും ഉണ്ടാകും ഇപ്പോൾ ടോപ്പോളജിക്കൽ ഓർഡറിംഗ് നിയന്ത്രണം പാതകളിലേക്ക് വ്യാപിക്കുന്നത് കാണാൻ എളുപ്പമാണ് അതായത് എനിക്ക് k ന് മുമ്പായി j എഡ്ജ് ആയിരുന്നെങ്കിൽ അവസാന ശ്രേണിയിൽ k ന് മുമ്പായി j പ്രത്യക്ഷപ്പെടണമെന്ന് എനിക്കറിയാം കൂടാതെ j മുതൽ k വരെയുള്ള പാതയുണ്ട് j മുതൽ k വരെയുള്ള ഡിപൻഡൻസികളുടെ ഒരു ശ്രേണി ഉണ്ട് അതിനാൽ k ന് മുമ്പായി j പ്രത്യക്ഷപ്പെടണം ഇപ്പോൾ എനിക്ക് ഒരു ചക്രം ഉണ്ടെങ്കിൽ അത് j ന് k ന് മുമ്പും k ന് j ന് മുമ്പും വരണം എന്ന് പറയുന്നു അതിനാൽ ഇത് തകർക്കാൻ ഒരു വഴിയുമില്ല അതിനാൽ പരിമിതികളെ മാനിക്കാൻ ഈ സെറ്റ് ഓർഡർ ചെയ്യാൻ കഴിയാത്ത ഈ അവസ്ഥയിൽ ഞങ്ങൾ അവസാനിക്കും അതിനാൽ ഗ്രാഫിന് ചക്രങ്ങളുണ്ട് തുടർന്ന് ടോപ്പോളജിക്കൽ ക്രമം സാധ്യമല്ലെന്ന് വ്യക്തമാണ് അതിനാൽ ഞങ്ങൾ അവകാശപ്പെടുന്നത് എന്നിരുന്നാലും DAG കൾക്ക് സൈക്കിൾ ഇല്ല എന്നതാണ് ഗ്രാഫ് യഥാർത്ഥത്തിൽ അസൈക്ലിക്ക് ആണ് അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ടോപ്പോളജിക്കലായി ഓർഡർ ചെയ്യാൻ കഴിയും അതിനാൽ ഈ തന്ത്രം വെർട്ടീസുകളെ ഇനിപ്പറയുന്ന രീതിയിൽ ക്രമീകരിക്കുക എന്നതാണ് നിങ്ങൾ ആദ്യം ആശ്രിതത്വമില്ലാത്ത എല്ലാ വെർട്ടീസുകളും പട്ടികപ്പെടുത്തുന്നു ഞങ്ങളുടെ മുമ്പത്തെ ഉദാഹരണത്തിൽ ഡിപൻഡൻസികളില്ലാത്ത ശീർഷകത്തിന് പാസ്പോർട്ട് ലഭിക്കുന്നു പാസ്പോർട്ട് ലഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിനാൽ ആദ്യം നമുക്ക് അത് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഞങ്ങൾ നോപ് ടോപ്പ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ശീർഷകം കാണുന്ന ഡിപൻഡൻസിയെല്ലാം ഇപ്പോൾ തൃപ്തിപ്പെടുത്തുന്ന ഡിപൻഡൻസികളാണ് തുടർന്ന് ഞങ്ങൾക്ക് അത് കണക്കാക്കാം അതിനാൽ ഇൻകമിംഗ് അരികുകളില്ലാത്ത വെർട്ടീസുകൾ ഞങ്ങൾക്ക് വ്യവസ്ഥാപിതമായി ലിസ്റ്റുചെയ്യാൻ കഴിയും തുടർന്ന് ഇൻകമിംഗ് അരികുകൾ ഇതിനകം ഒരു അക്കത്തിനായി കണക്കാക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം ലംബമാക്കുന്നു അതിനാൽ ഈ ആശയം ഔപചാരികമാക്കുന്നതിന് ഞങ്ങൾ ചില പദങ്ങൾ അവതരിപ്പിക്കുന്നു അതിനാൽ ഒരു വഴിതിരിച്ചുവിടാത്ത ഗ്രാഫിനായി v ലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്ന ലംബങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതിന് v എന്ന ഡിഗ്രി എന്ന പദം ഞങ്ങൾ ഉപയോഗിക്കുന്നു v യുടെ ഡിഗ്രി 4 ആണെന്ന് പറയും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡയറക്ട് ഗ്രാഫ് ഉള്ളതിനാൽ ഞങ്ങൾക്ക് അരികുകളിൽ ഒരു ദിശകളുണ്ട് ഞങ്ങൾക്ക് വരുന്ന ചില അരികുകളും പുറത്തുപോകുന്ന ചില അരികുകളും ഉണ്ട് അതിനാൽ ഡിഗ്രി ഡിഗ്രി ഡിഗ്രി എന്നിവയിലേക്ക് ഞങ്ങൾ വേർതിരിക്കുന്നു അതിനാൽ v ലേക്ക് v ലേക്ക് നയിക്കുന്ന അരികുകളുടെ എണ്ണമാണ് അൺഗ്രീ v യുടെ ബാഹ്യഗ്രൂപ്പ് v ൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്ന നിരവധി അരികുകളാണ് അതിനാൽ ഞങ്ങളുടെ ആദ്യത്തെ അവകാശവാദം ഓരോ DAG നും ഡിഗ്രി 0 ഉള്ള ഒരു ശീർഷകമെങ്കിലും ഉണ്ടെന്നതാണ് ഉദാഹരണമായി ഡിഗ്രി 0 ഉള്ള ഒരു ശീർഷകം ആശ്രിതത്വമില്ലാത്ത ഒന്നാണ് അത് ഒന്നിനെയും ആശ്രയിക്കുന്നില്ല ഇത് ഒന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല ഇപ്പോൾ 0 നെക്കാൾ വലിയ ഡിഗ്രി ഉള്ള ഏതെങ്കിലും ശീർഷകത്തിൽ നിന്ന് ആരംഭിക്കുന്നുവെന്ന് കരുതുന്നിടത്ത് ഇത് എങ്ങനെ തെളിയിക്കും കാരണം അതിൽ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിന് അതിലേക്ക് കുറച്ച് ദൂരം വരണം അതിനാൽ നമുക്ക് b 2 ൽ വിളിക്കാം ഇപ്പോൾ ഇത് ഡിഗ്രി 0 ൽ ഇല്ലെന്ന് കരുതുക അതിനുശേഷം അത് ചൂണ്ടിക്കാണിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കണം അതിനാൽ എനിക്ക് മൂന്നാമത്തെ ശീർഷകം ലഭിക്കുന്നു അതിനാൽ ഈ രീതിയിൽ ലംബങ്ങൾ നേരിടുന്ന ഡിഗ്രി 0 നേക്കാൾ കൂടുതലാണെന്ന് ഞാൻ കണ്ടെത്തിയാൽ ഒടുവിൽ എന്റെ ഗ്രാഫിലെ എല്ലാ വെർട്ടീസുകളും ഞാൻ കണക്കാക്കണം ഇപ്പോൾ ഒൻപതാമത്തെ ശീർഷകത്തിൽ n ലംബങ്ങളുണ്ടെന്ന് ഇപ്പോഴും ഒരു കേസ് ഇല്ലെങ്കിൽ അത് 0 വർദ്ധിക്കുന്നില്ല അപ്പോൾ ഇൻകമിംഗ് എഡ്ജ് ഉണ്ടായിരിക്കണം പക്ഷേ അവ ഒരു പുതിയ ശീർഷകത്തിൽ നിന്ന് ഉണ്ടാകരുത് അതിനാൽ മുമ്പ് കണ്ട നിലവിലുള്ള വെർട്ടീസുകളിൽ ഒന്നിൽ നിന്ന് ഇത് ചൂണ്ടിക്കാണിക്കണം അതിനാൽ എനിക്ക് തുടർച്ചയായ ഒരു സീക്വൻസോ വെർട്ടീസുകളോ ഉണ്ടെങ്കിൽ ഇവയെല്ലാം മുമ്പത്തേതിലേക്ക് 0 ന് തുല്യമല്ലാത്ത ഡിഗ്രിയിലേക്ക് വിരൽ ചൂണ്ടുന്നുവെങ്കിൽ ഞാൻ ഒരു സൈക്കിളിൽ അവസാനിക്കും പക്ഷേ ഇതാണ് വൈരുദ്ധ്യം കാരണം ഞങ്ങൾക്ക് ഒരു അസൈക്ലിക്ക് ഉണ്ട് ഗ്രാഫ് അതിനാൽ സംവിധാനം ചെയ്ത ഏതെങ്കിലും അസൈക്ലിക് ഗ്രാഫിൽ അവ ഡിഗ്രി 0 ഉള്ള ഒരു ശീർഷകമെങ്കിലും ആയിരിക്കണം അത് നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നിടത്ത് നിന്ന് കൂടുതൽ ആശ്രയത്വമുള്ള ടാസ്കിനോട് യോജിക്കുന്നു അല്ലെങ്കിൽ ടാസ്ക്കുകളുടെ ഒരു സംഖ്യ അതിനാൽ ഇത് മുമ്പ് വിവരിച്ച അൽഗോരിത്തിന്റെ കൂടുതൽ വിപുലമായ പതിപ്പാണ് അതിനാൽ ഡിഗ്രി 0 ഉള്ള ഒരു ശീർഷകം ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു അത്തരമൊരു ശീർഷകത്തിന് ഡിപൻഡൻസികളില്ലെന്ന് ഞങ്ങൾ വിളിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കണക്കാക്കിയത് കാരണം അത് ഇപ്പോൾ എണ്ണലിന് ലഭ്യമാണ് തുടർന്ന് ഞങ്ങൾ ഗ്രാഫിൽ നിന്ന് ഇല്ലാതാക്കി അതിനാൽ ഒരു ഗ്രാഫിൽ നിന്ന് ഡിഗ്രി 0 ഉള്ള ഒരു ശീർഷകം ഇല്ലാതാക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു DAG ഉള്ളപ്പോൾ കരുതുക അതിനാൽ ഞങ്ങൾ ഇത് തിരഞ്ഞെടുക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തുവെന്ന് കരുതുക തുടർന്ന് വ്യക്തമായി അവശേഷിക്കുന്നത് DAG ആണ് കാരണം അത് ഇപ്പോഴും സംവിധാനം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരു സൈക്കിൾ അവതരിപ്പിച്ചിട്ടില്ല അതിനാൽ ഇത് ഇതിനകം തന്നെ അസൈക്ലിക്ക് ആണ് കൂടാതെ ഒരു എഡ്ജ് ഇല്ലാതാക്കുന്നതിലൂടെ നമുക്ക് ഒരു സൈക്കിൾ അവതരിപ്പിക്കാൻ കഴിയില്ല അതിനാൽ വ്യക്തമായും ഇത് ഒരു DAG ആണ് അതിനാൽ നമുക്ക് അതേ മാനദണ്ഡം പ്രയോഗിക്കാൻ കഴിയും ഈ പുതിയ DAG ന് ഡിഗ്രി 0 ഉള്ള ശീർഷകത്തോടുകൂടിയ ഒരു ഡിഗ്രിയെങ്കിലും ഉണ്ടായിരിക്കണം അതിനാൽ നമുക്ക് അത് കണക്കാക്കാനും തുടരാനും കഴിയും അതിനാൽ ഞങ്ങൾ ലംബങ്ങൾ ഉപയോഗിച്ച് എണ്ണുന്നു ഡിഗ്രി 0 ഉം ത്രോഗും DAG ശൂന്യമായിത്തീരുന്നു ഓരോ n ശീർഷകവും ഞങ്ങൾ DAG ൽ നിന്ന് ഇല്ലാതാക്കും അതിനാൽ ഈ DAG ലേക്ക് നമുക്ക് തന്ത്രം പ്രയോഗിക്കാം അതിനാൽ ഓരോ ശീർഷകത്തെയും ഡിഗ്രി ഉപയോഗിച്ച് ലേബൽ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ആരംഭിക്കുന്നത് അതിനാൽ ഓരോ ശീർഷകത്തിന്റെയും അളവ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് വായിക്കും അതിനാൽ ഉദാഹരണത്തിന് 1 2 എന്നിവയ്ക്ക് ഇൻകമിംഗ് അരികുകളില്ല അതിനാൽ അവ ഡിഗ്രി 0 ലും വെർട്ടെക്സ് 3 ഡിഗ്രി 2 ലെന്നപോലെ 2 അരികുകളിലുമാണ് വെർട്ടെക്സ് 8 ന് 4 അരികുകൾ ഉള്ളിലും ഡിഗ്രിയിൽ 4 വരെയും ഉണ്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ ഡിഗ്രി 0 ലെ ഒരു ശീർഷകം എടുക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങൾക്ക് 1 നും 2 നും ഇടയിൽ ഒരു ചോയ്സ് ഉണ്ട് അതിനാൽ നമ്മൾ 1 ൽ നിന്ന് ആരംഭിക്കുന്നുവെന്ന് കരുതുക അതിനാൽ ഞങ്ങൾ ഒഴിവാക്കിയ 1 ൽ നിന്ന് ആരംഭിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പുറത്തുപോകുന്ന അരികുകളും ഞങ്ങൾ ഇല്ലാതാക്കുന്നു അതിനാൽ 3 4 5 എന്നിവയിലേക്ക് വരുന്ന അരികുകൾ 1 കുറയും കാരണം ഒരു ശീർഷകം 1 ഇല്ലാതാകുന്നു അതിനാൽ അവയിലേക്ക് വരുന്ന അരികുകൾ ഡിഗ്രിയിൽ 1 കുറയുന്നു അതിനാൽ എലിമിനേഷൻ 1 ന് എന്ത് സംഭവിക്കും എന്നത് ഞങ്ങൾ കണക്കാക്കുകയും 3 4 5 ഡിഗ്രി 2 1 1 മുതൽ 1 0 0 വരെ കുറയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ അതിനുമുമ്പുള്ള കുറവ് അല്ലെങ്കിൽ 2 1 1 എന്നിവ ഇപ്പോൾ ഓർക്കുക അവയിലേക്ക് വരുന്ന ഈ അരികുകൾ ഇല്ലാതാക്കി അതിനാൽ ഞങ്ങൾ ഇത് ഇല്ലാതാക്കുമ്പോൾ ഇൻകമിംഗ് അരികുകളും ഇല്ലാതാക്കുന്നു അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് 1 0 0 ഉണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് ചോയിസുകൾ ഉണ്ട് രണ്ട് ഒറിജിനൽ ഒന്ന് ഡിഗ്രി 0 ആണ് കൂടാതെ നിങ്ങൾക്ക് രണ്ട് പുതിയ വെർട്ടീസുകൾ 4 ഉം 5 ഉം ഉണ്ട് അവ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ ടാസ്ക്കുകളുമായി യോജിക്കുന്നു ആരുടെ മുൻവ്യവസ്ഥ പൂർത്തിയായി അതിനാൽ ടാസ്ക്കുകൾ 1 എന്നത് 4 ന് മുൻകൂട്ടി അഭ്യർത്ഥിച്ച ഒരേയൊരു കാര്യമായിരുന്നു ടാസ്ക് 1 എന്നത് 5 ന് മുൻവ്യവസ്ഥ മാത്രമാണ് ഇത് പൂർത്തിയായി അതിനാൽ 4 ഉം 5 ഉം അല്ലെങ്കിൽ ഇപ്പോൾ ലഭ്യമാണ് അതിനാൽ നമുക്ക് 2 4 5 എന്നിവ തിരഞ്ഞെടുക്കാം അതിനാൽ ഞങ്ങൾ 4 തിരഞ്ഞെടുത്തുവെന്ന് കരുതുക പിന്നീട് ഈ രണ്ട് അരികുകളും പോകും അതിനാൽ ഇത് 1 ആയി കുറയും ഇത് 3 ആയി കുറയും അതിനാൽ നമുക്ക് അത് 4 ഒഴിവാക്കാനും 6 ഡിഗ്രി 2 മുതൽ 1 വരെ 8 ഡിഗ്രിയിൽ 4 ൽ നിന്ന് 3 ആക്കാനും കഴിയും ഇപ്പോൾ ഇത് ടാസ്ക് 2 ഇല്ലാതാക്കാൻ തീരുമാനിച്ചേക്കാം അതിനാൽ നിങ്ങൾ പാസ് 2 ചെയ്യുമ്പോൾ 3 ഡിഗ്രി കുറയുകയും 8 ഡിഗ്രി വീണ്ടും കുറയുകയും ചെയ്യുന്നു അതിനാൽ 8 ഇപ്പോഴും 5 7 എന്നീ ആവശ്യകതകളിൽ മാത്രം തീർപ്പുകൽപ്പിച്ചിട്ടില്ല അതിനാൽ ഇത് ഇനിയും ചെയ്യാൻ കഴിയില്ല എന്നാൽ 3 ഉം 5 ഉം ലഭ്യമാണ് അതിനാൽ ഒരുപക്ഷേ ഞാൻ 5 ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ 8 പ്ലസ് 1 ഉം ഇപ്പോൾ മറ്റ് മാർഗവുമില്ല ഡിഗ്രി 0 ഉള്ള ഒരേയൊരു ദ task ത്യം 3 ആണ് അതിനാൽ ഞാൻ 3 ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വരച്ച വഴിയാണെന്ന് എനിക്ക് കാണാൻ കഴിയും അതാണ് സീക്വൻസ് ഞാൻ 6 ന് മുമ്പ് 3 6 ന് 7 7 ന് 8 ന് മുമ്പായിരിക്കണം അതിനാൽ ഈ പോയിന്റിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കേണ്ടതില്ല 3 എന്ന് കണക്കാക്കണം പിന്നെ 6 പിന്നെ 7 ഒടുവിൽ 8 ഈ സമയത്ത് ഗ്രാഫ് ശൂന്യമായിരിക്കാം കൂടാതെ സാധുവായ ഒരു ടോപ്പോളജിക്കൽ ഓർഡറിംഗായ വെർട്ടീസുകളുടെ ഒരു ശ്രേണി ഞാൻ നേടേണ്ടതുണ്ട് കാരണം എന്റെ യഥാർത്ഥ ഗ്രാഫിൽ ഒരു എഡ്ജ് സംഭവിക്കുന്ന ഓരോ ജോഡി വെർട്ടീസുകളും ക്രമമാണ് അതിനാൽ എഡ്ജിന്റെ ആ ഉറവിടം ടാർഗെറ്റിന് മുമ്പായി എഡ്ജിലേക്ക് ദൃശ്യമാകുന്നു അതിനാൽ ഞങ്ങൾ ഇപ്പോൾ DAG നടപ്പിലാക്കിയ അൽഗോരിതം ചില കപട കോഡ് നോക്കാം അതിനാൽ ഈ പ്രത്യേക അൽഗോരിതം ആദ്യം നമ്മൾ ആരംഭിക്കുന്നത് ഇൻ ഡിഗ്രി കണക്കുകൂട്ടിയാണ് അതിനാൽ ഡിഗ്രി കണക്കുകൂട്ടാൻ ഒരു ശീർഷകത്തിന് എത്രയെണ്ണം കണ്ടെത്തേണ്ടതുണ്ട് i ഒരു ജി യുടെ സ്വത്ത് എത്ര ജെ തൃപ്തിപ്പെടുത്തുന്നുവെന്ന് കണ്ടെത്തേണ്ടതുണ്ട് 1 ന് തുല്യമാണ് കാരണം ഇത് j മുതൽ i വരെയുള്ള ഒരു അരികുമായി യോജിക്കുന്നു അതിനാൽ ഒരു സമീപസ്ഥ മാട്രിക്സ് ചെയ്യുമ്പോൾ ഇത് വരി അടങ്ങിയ ഒരു നിര നോക്കുന്നതിന് തുല്യമാണ് കാരണം ഞാൻ അടങ്ങിയിരിക്കുന്ന നിരയിൽ നിങ്ങൾക്ക് A 1 i A 2 i എന്നിങ്ങനെയുള്ള എൻട്രികൾ ഉണ്ടാകും അതിനാൽ ഞങ്ങൾക്ക് ഈ എൻട്രികൾ ഉണ്ടാകും കൂടാതെ ഇവയെല്ലാം സ്കാൻ ചെയ്ത് എല്ലാ 1 കളും ചേർക്കാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നു അതിനാൽ 1 ന് തുല്യമായ ഡിഗ്രി ഒരു ഡിഗ്രി i 0 ന് തുല്യമായ ക്രമത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നു തുടർന്ന് ഓരോ വരിയിലും j ഞങ്ങൾ A j i ചേർക്കുന്നു അതിനാൽ ഇത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആണ് അതിനാൽ ഇൻകമിംഗ് എല്ലാ അരികുകളും ഞാൻ ശേഖരിക്കുന്നു അത് i യുടെ ഡിഗ്രി ആയി ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ എണ്ണാൻ ആരംഭിക്കുന്നു അതിനാൽ ഇത് ഒരു DAG ആണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഓരോ ഘട്ടത്തിലും ഡിഗ്രി 0 ഉള്ള കുറഞ്ഞത് 1 j എങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ അത്തരത്തിലുള്ള ഏതെങ്കിലും j ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഡിഗ്രി 0 ഉള്ള ഒരു j തിരഞ്ഞെടുക്കുക അത് കണക്കാക്കുക ഇപ്പോൾ ഞങ്ങൾ കണക്കാക്കുമ്പോൾ ഗ്രാഫിൽ നിന്ന് ഒഴിവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ ഗ്രാഫ് പരിഷ്ക്കരിക്കുന്നതിന് പകരം ആ പരിഷ്ക്കരിച്ച ഗ്രാഫിന്റെ ഏകദേശ പതിപ്പായി ഞങ്ങൾ ഡിഗ്രിയിൽ പ്രവർത്തിക്കും അതിനാൽ ഈ പ്രത്യേക ശീർഷകത്തിനായി ഞങ്ങൾ ആദ്യം ഇൻ ഡിഗ്രി മൈനസ് 1 ആയി സജ്ജമാക്കി അതിനാൽ മൈനസ് 1 എന്നതിനർത്ഥം ഇത് ഗ്രാഫിൽ ഉണ്ടാകാൻ പാടില്ല കാരണം നിങ്ങൾക്ക് മൈനസ് 1 അരികുകൾ പോയിന്റുചെയ്യാൻ കഴിയില്ല മോഡിംഗിന് കുറഞ്ഞത് 0 അരികുകളെങ്കിലും ഉണ്ടായിരിക്കാം അതിനാൽ ഇത് ഫലപ്രദമായി അർത്ഥമാക്കുന്നത് j അതിനാൽ 4 ആയി കണക്കാക്കില്ല എന്നാണ് ഇപ്പോൾ j ൽ നിന്ന് going ട്ട്ഗോയിംഗ് ചെയ്യുന്ന ഓരോ അരികിലും അതിനാൽ k ലേക്ക് ചൂണ്ടിക്കാണിക്കുന്നിടത്തെല്ലാം ഇത് കുറയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം j നെ ഒഴിവാക്കുന്ന ഈ എഡ്ജ് ഞങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നു ഞങ്ങൾ ഈ എഡ്ജ് ഇല്ലാതാക്കുന്നു അതിനാൽ 1 മുതൽ n വരെയുള്ള ഓരോ k യ്ക്കും j യുടെ അയൽവാസികളിലേക്ക് പോകുന്നത് സ്കാൻ ചെയ്യുന്നു j k ഒരു എഡ്ജ് ആണെങ്കിൽ A j k 1 ആണെങ്കിൽ നമ്മൾ k ന്റെ ഡിഗ്രി 1 കുറയ്ക്കുന്നു അതിനാൽ അൽഗോരിത്തിന്റെ സങ്കീർണ്ണത എന്താണെന്നറിയാൻ ഈ സമീപസ്ഥ മാട്രിക്സ് അല്ലെങ്കിൽ സമ്മാനങ്ങൾ n ചതുരമാണെന്ന് കാണാൻ എളുപ്പമാണ് കാരണം ഡിഗ്രി ആരംഭിക്കുന്നത് തന്നെ സമയം n ചതുരശ്ര സമയമെടുക്കുന്നു കാരണം നമുക്ക് 1 മുതൽ n വരെ ഒരു ബാഹ്യ ലൂപ്പ് ഉണ്ട് അതിനുശേഷം ഓരോ ബാഹ്യ ലൂപ്പിനും 1 മുതൽ n വരെ ആന്തരിക ലൂപ്പ് ഉണ്ട് അതിനാൽ ഇത് ഒരു n ചതുര ലൂപ്പാണ് എന്നിട്ട് നമ്മൾ വീണ്ടും ലംബങ്ങൾ കണക്കാക്കുമ്പോൾ നമുക്ക് ഒരു ബാഹ്യ ലൂപ്പ് ഉണ്ട് അത് ഓരോ ശീർഷകവും ഒരു തവണ കണക്കാക്കും ആന്തരിക ലൂപ്പിനായി അയൽവാസികളും കുറവുകളും എല്ലാം പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾക്ക് 2 n സ്ക്വയർ ലൂപ്പുകൾ ഉണ്ട് അതിനാൽ ഈ മുഴുവൻ കാര്യങ്ങളും ഓർഡർ n സ്ക്വയർ എടുക്കുന്നു ഇപ്പോൾ ബിഎഫ്എസ് ഡിഎഫ്എസ് എന്നിവ ഉപയോഗിച്ച് കണ്ടതുപോലെ നമുക്ക് ഒരു സമീപസ്ഥല ലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമാനാകാം കൂടാതെ ഈ സമയം n സ്ക്വയറിൽ നിന്ന് ലീനിയറിലേക്ക് കൊണ്ടുവരാനും നമുക്ക് n പ്ലസ് m ഓർഡർ ചെയ്യാനും കഴിയും അതിനാൽ ഞങ്ങൾ ഇത് എങ്ങനെ ചെയ്യും ശരി ഞങ്ങൾക്ക് ഈ ലിസ്റ്റ് ഉണ്ട് അതിനാൽ ഞങ്ങൾക്ക് 1 2 ലിസ്റ്റ് പറയുന്നു ഇവയിൽ ഓരോന്നിനും അയൽവാസികളാണ് അതിനാൽ ഇതിലെ ഓരോ അരികിലും ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിലൂടെ പോയാൽ ഇപ്പോൾ ഇത് ഒരു ഡയറക്റ്റ് ഗ്രാഫ് ആണ് അതിനാൽ ഓരോ അരികുകളും i മുതൽ j വരെയുള്ള ഒരു അഗ്രം ഒരു തവണ മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂ അത് i നായുള്ള പട്ടികയിലെ ഒരു എൻട്രി j ആയി ദൃശ്യമാകും അതിനാൽ ഞങ്ങൾ ഒരു ജെ കാണുമ്പോഴെല്ലാം നിങ്ങൾ ഈ ലിസ്റ്റുകൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ j ലേക്ക് പോയിന്റുചെയ്യുന്ന ഒരു എഡ്ജ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ വർദ്ധിപ്പിക്കും അതിനാൽ എല്ലാ ഡിഗ്രികളിലും 0 ആയി സജ്ജീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ഞങ്ങൾ എല്ലാ ലിസ്റ്റുകളും സ്കാൻ ചെയ്യുന്നു കൂടാതെ ഒരു പട്ടികയിൽ ഒരു എൻട്രി കാണുമ്പോഴെല്ലാം ഞങ്ങൾ ഇത് ഡിഗ്രിയിൽ വർദ്ധിപ്പിക്കുന്നു അതിനാൽ സമയക്രമത്തിലുള്ള പട്ടികയുടെ ഒരു സ്കാൻ n നമുക്ക് ഡിഗ്രികളിൽ കണ്ടെത്താം ഇപ്പോൾ നമുക്ക് ഡിഗ്രികളിലെ ലിസ്റ്റ് ഉണ്ട് അതിനാൽ നമുക്ക് എല്ലാ ഡിഗ്രി വെർട്ടീസുകളും ഒരു ക്യൂവിലാക്കാം അടുത്തത് ഏത് ശീർഷകമാണ് കണക്കാക്കേണ്ടതെന്ന് ഇത് എളുപ്പമാക്കുന്നു അതിനാൽ ഈ സ്കാനിന്റെ അവസാനം എല്ലാ ഡിഗ്രികളിലും കണ്ടെത്തുന്നതിന് ഞങ്ങൾ ഒരു ഓർഡർ എം സ്കാൻ ചെയ്തു ഇപ്പോൾ ഒരു ഓർഡർ എൻ സ്കാൻ നമുക്ക് 0 ഡിഗ്രി വെർട്ടീസുകളെല്ലാം ഒരു ക്യൂവിൽ ഉൾപ്പെടുത്താം ഇപ്പോൾ മുമ്പത്തെപ്പോലെ തന്നെ ബാക്കിയുള്ളവയും നമുക്ക് ചെയ്യാൻ കഴിയും ക്യൂവിലെ ആദ്യത്തെ ശീർഷകം ഞങ്ങൾ കണക്കാക്കുന്നു തുടർന്ന് ഞങ്ങൾ അതിന്റെ പട്ടികയിലേക്ക് പോകുന്നു അത് ഇപ്പോൾ ഒരു സമീപസ്ഥല പട്ടികയിൽ വ്യക്തമായി ലഭ്യമാണ് going ട്ട്ഗോയിംഗ് അയൽക്കാർ അതിന്റെ ബിരുദം കുറയ്ക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിഗ്രിയിലുള്ളവരുടെ എണ്ണം 0 ആയി മാറിയാൽ നമുക്ക് ക്യൂവിൽ ചേർക്കാം അതിനാൽ ഇത് ഇപ്പോൾ പ്രോസസ്സ് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഇത് മൊത്തമായി മാറുന്നു പട്ടിക സ്കാൻ ചെയ്യാൻ ഓർഡർ m സമയമെടുക്കും ക്യൂ ആരംഭിക്കാൻ ഓർഡർ n സമയമെടുക്കുന്നു തുടർന്ന് ഇത് ഓർഡറിന്റെ ലൂപ്പാണ് ഇവിടെ എല്ലാ അപ്ഡേറ്റുകളിലും ഞങ്ങൾ മൊത്തത്തിൽ ചെയ്യും ഡിഗ്രി ക്രമത്തിൽ n തവണ അപ്ഡേറ്റുചെയ്യുക അതിനാൽ ഇത് ഓർഡർ n പ്ലസ് എം ആണ് അതിനാൽ ഇതാ അനുബന്ധ കപട കോഡ് അതിനാൽ ആദ്യ ഘട്ടം ഞങ്ങളുടെ ഗ്രാഫിലെ ഓരോ ശീർഷകത്തിനും ഡിഗ്രി 0 ആയി സമാരംഭിക്കുക എന്നതാണ് തുടർന്ന് ഞങ്ങൾ എല്ലാ അരികുകളിലൂടെയും പോകുന്നു അതിനാൽ ഓരോ സമീപസ്ഥല പട്ടികയും നോക്കിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഓരോ ശീർഷകത്തിനും നമ്മൾ ഓരോ അയൽക്കാരനായ i j സമീപസ്ഥല പട്ടിക എന്നിവ നോക്കുന്നു ഇവയിൽ ഓരോന്നിനും നമ്മൾ j യുടെ അളവ് വർദ്ധിപ്പിക്കും കാരണം j ലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന അരികുകളെയാണ് ഞാൻ നോക്കുന്നത് i ൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നില്ല അതിനാൽ j ലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് വ്യത്യസ്ത പട്ടികയിൽ വരും പക്ഷേ ഓരോന്നിനും വേണ്ടി നാം അവരെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ അവയ്ക്ക് കണക്കു കൂട്ടുകയും അതിലൊന്ന് ചേർക്കുകയും ചെയ്യും ഇപ്പോൾ ഒരു തവണ കൂടി ലംബങ്ങളുടെ പട്ടികയിലൂടെ കടന്നുപോകുന്നു ഓരോ തവണയും ഡിഗ്രി 1 0 ൽ ഒരു കാണും ഇപ്പോൾ ഞങ്ങൾ ഈ ലൂപ്പ് ചെയ്യുന്നു ക്യൂ ശൂന്യമാകുന്നതുവരെ ഇത് ഓരോ ഘട്ടത്തിലും ഗ്രാഫിനൊപ്പം ഓർമ്മിക്കുക a DAG ഒരു ശൂന്യമല്ല ഡിഗ്രി i 0 ഉള്ള ഡിഗ്രി വെർട്ടെക്സിൽ കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും ഉണ്ടെന്ന് നമുക്കറിയാം അവ ക്യൂവിലായിരിക്കണം കാരണം അവയെല്ലാം ചേർത്താൽ ക്യൂ ഉത്ഭവിച്ചു ഞങ്ങൾ സൃഷ്ടിക്കുന്ന ഓരോന്നും ഞങ്ങൾ ക്യൂവിൽ ചേർക്കും അതിനാൽ ഒരു ക്യൂവിനൊപ്പം ശൂന്യമല്ല ക്യൂവിലെ ആദ്യ ഘടകം ഞങ്ങൾ എടുക്കുന്നു അതിനുശേഷം ഞങ്ങൾ അതിന്റെ സമീപസ്ഥലത്തെ ലിസ്റ്റ് നോക്കുന്നു ആ ലംബങ്ങളുടെ ഡിഗ്രി കുറയ്ക്കുന്നു അവയിലേതെങ്കിലും ഇപ്പോൾ ഡിഗ്രി 0 ആയി മാറുകയാണെങ്കിൽ ഞങ്ങൾ ചേർക്കുന്നു ക്യൂവിലേക്ക് അതിനാൽ ഇത് ഇപ്പോൾ ടോപ്പോളജിക്കൽ സോർട്ടിന്റെ ഒരു രേഖീയ നടപ്പാക്കലായി മാറുന്നു സമീപസ്ഥല പട്ടികയും ഘടകങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിന് ഒരു ക്യൂവും ഉപയോഗിക്കുന്നു കാരണം ഞങ്ങൾക്ക് ഈ ക്യൂ ആവശ്യമുള്ളതിന്റെ കാരണം അല്ലാത്തപക്ഷം ഒരു വെർട്ടെക്സ് അല്ലെങ്കിൽ ഡിഗ്രി 0 ആയി മാറുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ എല്ലാ സമയത്തും എല്ലാ വെർട്ടീസുകളും സ്കാൻ ചെയ്യണം അത് ഒരു ഓർഡർ എൻ സ്കാൻ ആയി മാറുന്നു അതിനാൽ എണ്ണാൻ അടുത്ത ശീർഷകം തിരിച്ചറിയാൻ ഞങ്ങൾ സമയം ചെലവഴിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ക്യൂ ആവശ്യമാണ് നമുക്ക് എല്ലാ വെർട്ടീസുകളിലൂടെയും പോയി ഡിഗ്രികൾ പരിശോധിക്കേണ്ടതില്ല ഡിഗ്രി 0 കാണുമ്പോൾ ഞങ്ങൾ അത് ക്യൂവിൽ ഇടുന്നു അതിനാൽ കൂടുതൽ പരിശോധന നടത്താതെ യാന്ത്രികമായി ഇത് പുറത്തുവരും അതിനാൽ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ഈ ഓർഡർ m വർക്ക് നിരീക്ഷിക്കുന്നു